ഹ്യൂറിസ്റ്റിക്സ് സൂചിപ്പിക്കുന്നത് സോർട്ട് ഓർഡർ ഉം ജോയിൻ ട്രീകളിലും മാത്രമല്ല അത്തരം പല കേസുകളിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ട് മെച്ചപ്പെട്ട ക്വയറി ഒപ്റ്റിമൈസേഷൻ നടത്താൻ ഡാറ്റാബേസ് എഞ്ചിൻ നടത്തുന്ന ചില ഹ്യൂറിസ്റ്റിക്സ് ഇനിപ്പറയുന്നവയാണ് ആദ്യത്തേത് അത് ചെയ്യുന്ന ഒരു കാര്യം സെലക്ഷൻ നേരത്തേ നടത്തുന്നു എന്നതാണ് എന്തുകൊണ്ടാണത് കാരണം ഒരിക്കൽ സെലക്ഷൻ നടത്തിയാൽ റിലേഷന്റെ വലുപ്പം ഗണ്യമായി കുറയുന്നു റിലേഷനിൽ ചെയ്യുന്ന ഏത് പ്രവർത്തനവും അത് വേഗത്തിൽ ചെയ്യാൻ കഴിയും അത് ഒരു കാര്യമാണ് പ്രൊജക്ഷനുകൾ നേരത്തേ ചെയ്യാവുന്നതാണ് കാരണം അത് ആട്രിബ്യൂട്ടിന്റെ എണ്ണം കുറയ്ക്കുന്നു അത് പൊതുവായ റിലേഷന്റെ വലുപ്പം കുറയ്ക്കുകയും പിന്നീട് അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യും പൊതുവേ ക്രോസ് പ്രോഡക്ട്നേക്കാൾ നേരത്തെ ആണ് ജോയിൻ ചെയ്യുന്നത് ഒരു ജോയിൻ എന്നതിനുപകരം ക്രോസ് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ജോയിൻ പൊതുവെ നേരത്തെ ചെയ്യും കാരണം മനസ്സിലാക്കാൻ എളുപ്പമാണ് ജോയിൻ പ്രധാനമായും ക്രോസ് പ്രോഡക്ടുകൾ ആണ് അതിനുശേഷം ഒരു സെലക്ഷൻ ക്രോസ് പ്രോഡക്ട്നേക്കാൾ ചെറിയ ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ ജോയിൻസിന് കഴിയും അന്വേഷണത്തിന്റെ അർത്ഥശാസ്ത്രത്തെ ആശ്രയിക്കാത്ത തരം ഹ്യൂറിസ്റ്റിക്സ് ഇവയാണ് ഇത് ചെയ്യുന്നതിനു കീഴിലുള്ള തുല്യതാ നിയമങ്ങൾ ഉപയോഗിക്കുന്നു ഒപ്റ്റിമൈസറിന് ചില സെമാന്റിക് ഒപ്റ്റിമൈസേഷനുകളും ഉപയോഗിക്കാം ഉദാഹരണത്തിന് മാനേജരെക്കാൾ കൂടുതൽ സമ്പാദിക്കുന്ന എല്ലാ ജീവനക്കാരെയും കണ്ടെത്തുക എന്നതാണ് ചോദ്യം ഒരു ഡാറ്റാബേസ് എഞ്ചിൻ ലളിതമായി മുന്നോട്ട് പോയി മാനേജർ ശമ്പള പട്ടികയിൽ ജീവനക്കാരുടെ ശമ്പള പട്ടികയിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഈ ക്വയറി പരിഹരിക്കാൻ ശ്രമിക്കാം എന്നാൽ ഒരു സെമാന്റിക് അറിവ് കെട്ടിപ്പടുക്കുകയാണെങ്കിൽ ഒരു ജീവനക്കാരന് അവരുടെ മാനേജരെക്കാൾ കൂടുതൽ ശമ്പളം ലഭിക്കില്ല ഈ ക്വയറി ആ അർത്ഥപരമായ നിയമം ഉപയോഗിക്കുകയും നൾ സെറ്റ് നൽകുകയും ചെയ്യുന്നു അത് ഒരു സെമാന്റിക് ഒപ്റ്റിമൈസേഷന്റെ ഉദാഹരണമാണ് ഇത് പ്രധാനമായും ഡൊമെയ്ൻ അറിവും ഡാറ്റാബേസിൽ നേരിട്ട് നിർമ്മിച്ചിരിക്കുന്ന നിയന്ത്രണങ്ങളും ഉപയോഗിക്കുന്നു പകരം ഈ തുല്യത നിയമങ്ങളല്ല അതിനാൽ ഏത് അൽഗോരിതം മികച്ചതാണെന്നത് തിരഞ്ഞെടുക്കുന്നതിന് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള ക്വയറി ഒപ്റ്റിമൈസർ റിലേഷൻ ആട്രിബ്യൂട്ടുകൾ എന്നിവയെക്കുറിച്ച് ധാരാളം സ്ഥിതിവിവരക്കണക്കുകൾ സംഭരിക്കുന്നു തുടങ്ങിയവ സംഭരിച്ചിരിക്കുന്ന സ്ഥിതിവിവരക്കണക്കുകൾ എന്തൊക്കെയാണ് ഓരോ റിലേഷൻ r നും ഇത് ഇനിപ്പറയുന്ന സ്ഥിതിവിവരക്കണക്കുകൾ സംഭരിക്കുന്നു ആദ്യം അത് ട്യൂപ്പിളുകളുടെ എണ്ണം സംഭരിക്കുന്നു പിന്നെ അത് r ആവശ്യമുള്ള ബ്ലോക്കുകളുടെ എണ്ണം സംഭരിക്കുന്നു നമ്മൾ ഉദാഹരണം കണ്ടു ഇത് nr ആണ് ഇത് സംഭരിക്കുന്ന br ആണ് ഇത് ബ്ലോക്കിങ് ഫാക്ടർ എന്ന് വിളിക്കപ്പെടുന്നവയും സംഭരിക്കുന്നു ബ്ലോക്കിങ് ഫാക്ടർ അടിസ്ഥാനപരമായി ഒരു ബ്ലോക്കിൽ ചേരുന്ന ട്യൂപ്പുകളുടെ എണ്ണമാണ് ഇതാണ് ബ്ലോക്കിങ് ഫാക്ടർ ഇതാണ് ഉരുത്തിരിഞ്ഞ സ്ഥിതിവിവരക്കണക്കുകൾ അത് വ്യക്തമായി സംഭരിക്കുന്നു കാരണം അത് ചില കാര്യങ്ങളിൽ സഹായിക്കുന്നു ഒരു ടപ്പിൾ ന്റെ വലിപ്പം പ്രധാനമായും ബ്ലോക്ക് വലുപ്പത്തെ ബ്ലോക്കിങ് ഫാക്ടർ കൊണ്ട് ഹരിക്കുന്നു എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ഓരോ റിലേഷനും ക്വയറി ഒപ്റ്റിമൈസർ നിലനിർത്തുന്ന സ്ഥിതിവിവരക്കണക്കുകളാണിത് ഒരു റിലേഷന്റെ ഓരോ ആട്രിബ്യൂട്ടിനും ഇത് ഒരു ആട്രിബ്യൂട്ട് കോളമാണ് റിലേഷൻ r ന്റെ ആട്രിബ്യൂട്ട് A ചില സ്ഥിതിവിവരക്കണക്കുകൾ പരിപാലിക്കുന്നു ആദ്യത്തെ സ്ഥിതിവിവരക്കണക്ക് വ്യത്യസ്ത മൂല്യങ്ങളുടെ എണ്ണമാണ് ഇതൊരു രസകരമായ സ്ഥിതിവിവരക്കണക്കാണ് ഇത് അടിസ്ഥാനപരമായി വലുപ്പമാണ് A യിലെ പ്രൊജക്ഷൻ റിലേഷൻ r ലാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ വലുപ്പം എന്താണ് ഇതാണ് vr ഇത് സൂചിപ്പിക്കുന്നത് vr ആണ് ഇത് പല കേസുകളിലും ഉപയോഗപ്രദമാണ് ഡ്യൂപ്ലിക്കേറ്റ് എലിമിനേഷൻ ചെയ്യുമ്പോൾ ഇത് ഉപയോഗപ്രദമാകും തുടർന്ന് A ലുടനീളമുള്ള ഏറ്റവും കുറഞ്ഞ മൂല്യം പരമാവധി മൂല്യം ചില സന്ദർഭങ്ങളിൽ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ ശരാശരി മുതലായവയും സംഭരിക്കാനാകും യഥാർത്ഥത്തിൽ മൂല്യങ്ങളുടെ ഹിസ്റ്റോഗ്രാം നിലനിർത്തുന്നു ആ ആട്രിബ്യൂട്ട് എയുടെ മൂല്യങ്ങൾ എങ്ങനെയാണ് വിതരണം ചെയ്യുന്നത് ഹിസ്റ്റോഗ്രാം തുല്യ വീതി അല്ലെങ്കിൽ തുല്യ ആഴം ആകാം ഒരു തുല്യ വീതി ഹിസ്റ്റോഗ്രാമിൽ ഒരു ഹിസ്റ്റോഗ്രാമിൽ ഇടുന്ന മൂല്യത്തിന്റെ വ്യാപ്തി ഒന്നുതന്നെയാണ് തുല്യ ആഴത്തിൽ ഒരു ഹിസ്റ്റോഗ്രാമിൽ നിന്ന് അടുത്തതിലേക്ക് നൽകുന്ന മൂല്യങ്ങളുടെ എണ്ണം തുല്യമാണ് ഹിസ്റ്റോഗ്രാം നിലനിർത്താം ഒരു ബന്ധത്തിന്റെ ഓരോ സൂചിക I നും അത് വീണ്ടും ചില സ്ഥിതിവിവരക്കണക്കുകൾ നിലനിർത്തുന്നു സ്ഥിതിവിവരക്കണക്കുകൾ തീർച്ചയായും ലെവലിന്റെ എണ്ണം ഞാൻ ഇൻഡക്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ബി ട്രീ ആണ് ഇത് ട്രീന്റെ തലങ്ങളുടെ എണ്ണമാണ് അതാണ് ട്രീയുടെ ഉയരം പിന്നെ ലീഫുകളുടെ എണ്ണം അത് വൃക്ഷത്തിന്റെ ക്രമവും ശരാശരി ശാഖാ ഘടകവും എല്ലാ കാര്യങ്ങളും പറയുന്നു ഹാഷ് എന്നതിനായി ഇൻഡെക്സ് ഉപയോഗിക്കണമോ എന്ന് തീരുമാനിക്കാൻ ഇത് സഹായിക്കുന്നു ഇതിനുശേഷം ക്വയറി ഒപ്റ്റിമൈസർ എങ്ങനെയാണ് വലുപ്പം കണക്കാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത വിഷയം വ്യത്യസ്ത പ്രവർത്തനങ്ങളുടെ വലുപ്പം കണക്കാക്കുന്നതിനെക്കുറിച്ചാണ് നമുക്ക് ആദ്യം സെലക്ഷൻ കൈകാര്യം ചെയ്യാം സെലക്ഷൻ വ്യവസ്ഥ ആണെന്ന് കരുതുക ഇപ്പോൾ ഇത് എന്താണ് അത് പരിഹരിക്കാൻ രണ്ട് വഴികളുണ്ട് A എന്നത് r റിലേഷന്റെ സൂപ്പർ കീ ആണെന്ന് കരുതുക അപ്പോൾ ഇതിന്റെ വലുപ്പം 1 അല്ലെങ്കിൽ 0 ആയിരിക്കും A ഒരു കീ ആണെങ്കിൽ ആ മൂല്യം സംഭവിക്കുമ്പോൾ അത് 1 ആവും അത് സംഭവിച്ചില്ലെങ്കിൽ അത് 0 ആണെങ്കിൽ അത് കീ അല്ലെങ്കിൽ പിന്നെ എന്താണ് ഉത്തരം അപ്പോൾ മുമ്പത്തെ കാര്യങ്ങളിൽ നിന്ന് ഉത്തരം ലഭിക്കും ഇത് ഏകദേശം ആയിരിക്കും എന്തുകൊണ്ടാണത് കാരണം nr എന്നത് മൊത്തം ടുപ്പിളുകളുടെ എണ്ണവും vr എന്നത് വ്യത്യസ്ത മൂല്യങ്ങളുടെ എണ്ണവുമാണ് ശരാശരി ഓരോ മൂല്യത്തിനും ഇത് നിലവിലുണ്ടെങ്കിൽ nrvr ആണ് അല്ലാത്തപക്ഷം ഇത് 0 ആണ് ഇത് സമത്വ തിരഞ്ഞെടുപ്പിനുള്ളതാണ് തുല്യതയില്ലാത്ത തിരഞ്ഞെടുപ്പിൽ എന്താണ് ഇത് ക്വയറിയേക്കാൾ കുറവാണെന്ന് കരുതുക x നിലനിർത്തുന്ന ഏറ്റവും കുറഞ്ഞ മൂല്യത്തേക്കാൾ കുറവാണെങ്കിൽ ഇതിനുള്ള ഉത്തരം 0 ആണ് സംഭരിച്ചിരിക്കുന്ന പരമാവധി മൂല്യത്തേക്കാൾ x കൂടുതലാണെങ്കിൽ ഉത്തരം ഒരു മുഴുവൻ റിലേഷൻ ആണ് റിലേഷന്റെ വലുപ്പം ഉത്തരമാണ് അല്ലെങ്കിൽ ഇത് ഇനിപ്പറയുന്ന രീതിയിൽ കണക്കാക്കുന്നു ഇത് നൽകുന്നത് ഇത് സൂക്ഷിച്ചിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ മൂല്യമാണ് ഇത് സംഭരിച്ചിരിക്കുന്ന പരമാവധി മൈനസ് കുറഞ്ഞ മൂല്യമാണ് ശ്രദ്ധിക്കുക ഇവയെല്ലാം പരുക്കൻ അളവുകളാണ് ഇത് കൃത്യമായി തുല്യമാകില്ല ഈ ഫോർമുല അനുമാനിക്കുന്നത് മിനിമം മൂല്യം മുതൽ പരമാവധി മൂല്യം വരെ തുല്യമായി വിതരണം ചെയ്യുന്നു എന്നാണ് x സംഭവിക്കുന്നിടത്തെല്ലാം x മൈനസ് മിനിമം ഏകദേശം x ൽ താഴെയാകാൻ പോകുന്ന ടുപ്പിളുകളുടെ ശതമാനം നൽകുന്നു എന്നിട്ട് നിങ്ങൾ അത് nr കൊണ്ട് ഗുണിച്ചാൽ അത് യഥാർത്ഥ ടുപ്പിളുകളുടെ എണ്ണം നൽകുന്നു അത് ഒരു എസ്റ്റിമേറ്റാണ് ഈ എസ്റ്റിമേറ്റ് ഹിസ്റ്റോഗ്രാം ഉപയോഗിക്കുന്നില്ല ഇത് മിനിറ്റും പരമാവധി x മൂല്യങ്ങളും ഉപയോഗിക്കുന്നു ഹിസ്റ്റോഗ്രാമുകൾ ലഭ്യമാകുമ്പോൾ ഒരേ വീതി അല്ലെങ്കിൽ ഒരേ ഹൈറ്റ് ഹിസ്റ്റോഗ്രാമുകൾ ലഭ്യമാണ് എസ്റ്റിമേറ്റുകൾ മികച്ചതായിരിക്കും കാരണം ക്വയറി ഒപ്റ്റിമൈസർ ചെയ്യേണ്ടത് അത് ഹിസ്റ്റോഗ്രാമിന്റെ എണ്ണം കണക്കാക്കുക എന്നതാണ് അതിനു താഴെ ഹിസ്റ്റോഗ്രാം അർത്ഥമാക്കുന്നത് അത് ഓവർലാപ്പ് ചെയ്യുന്നു എന്നാണ് ഈ ഫോർമുല ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും കണക്കാക്കേണ്ടതുണ്ട് പക്ഷേ അല്ലാത്തപക്ഷം ഹിസ്റ്റോഗ്രാമിന്റെ യഥാർത്ഥ എണ്ണം x ൽ കുറവുള്ളതാണെന്ന് അർത്ഥമാക്കുന്നു അടുത്ത ചോദ്യം A x ആണ് മുമ്പത്തേത് x ന് തുല്യമാണ് ഇത് പരിഹരിക്കാനുള്ള ഒരു മാർഗമാണിത് ഒരാൾക്ക് പരിഹരിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ ഒഴിവാക്കുമ്പോൾ അത് പരിഹരിക്കുന്നു അതാണ് എളുപ്പം അടുത്തതായി നമ്മൾ പഠിക്കുന്നത് ഇത് വീണ്ടും വളരെ എളുപ്പത്തിൽ പരിഹരിക്കാനാകും എന്നത് യുടെ കോംപ്ലിമൻറ് എന്നത് ശ്രദ്ധിക്കുക അതിനാൽ അത് പരിഹരിക്കാൻ ഒരാൾക്ക് ആ എസ്റ്റിമേറ്റ് ഉപയോഗിക്കാം ഇത് കേവലം ആണ് അതിനുള്ള വലുപ്പം സമാനമായി രണ്ട് തരത്തിൽ കണക്കാക്കാം ഇത് ആണ് അവസാനം ഒരു കാര്യം മാത്രമേ ബാക്കിയുള്ളൂ ഈ സമയം ഇത് എങ്ങനെ പരിഹരിക്കാമെന്ന് നമ്മൾ തീർച്ചയായും കണ്ടെത്തിയിട്ടുണ്ട് ഇത് അടിസ്ഥാനപരമായി ആണ് അതായത് സെലക്ഷനുകളുടെ വലുപ്പം ഒരു ആട്രിബ്യൂട്ടിലെ ലളിതമായ തിരഞ്ഞെടുപ്പുകൾ എന്നിവ പൂർത്തിയാക്കുന്നു അടുത്തതായി സങ്കീർണ്ണമായ തിരഞ്ഞെടുപ്പുകൾ എങ്ങനെ നടത്താം അത് ഒരു ആട്രിബ്യൂട്ടിലല്ല മറിച്ച് ഒന്നിലധികം ആട്രിബ്യൂട്ടുകളിലാണ് അതാണ് ഞാൻ സങ്കീർണ്ണമായ തിരഞ്ഞെടുപ്പുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തിരഞ്ഞെടുക്കലിൽ ഒന്നിലധികം വ്യവസ്ഥകൾ ഉണ്ട് തീറ്റ എന്ന അവസ്ഥയ്ക്ക് എന്തെങ്കിലും നിർവചിച്ചിരിക്കുന്നു സെലക്റ്റിവിറ്റി നിർവചിച്ചിരിക്കുന്നത് എത്ര ടുപ്പിളുകൾ ആ അവസ്ഥ മാത്രം കടന്നുപോകുന്നു അതിനെ അവസ്ഥയുടെ സെലക്റ്റിവിറ്റി എന്ന് വിളിക്കുന്നു അത് പ്രധാനമായും യേ തൃപ്തിപ്പെടുത്തുന്ന r ലെ ടപ്പിളിന്റെ പ്രോബബിലിറ്റി ആണ് കണക്കാക്കുന്നതിനുള്ള മാർഗ്ഗം s ടപ്പിളുകളുടെ എണ്ണം അവസ്ഥയിലൂടെ കടന്നുപോയാൽ എന്നത് സെലക്റ്റിവിറ്റിയാണ് സെലക്റ്റിവിറ്റി അടിസ്ഥാനപരമായി s നെ എന്ന മൊത്തം ടപ്പിളുകളുടെ എണ്ണം കൊണ്ട് ഹരിക്കണം അവസ്ഥ ഇവയുടെ സംയോജനമാണെങ്കിൽ ഈ തിരഞ്ഞെടുക്കൽ ഉപയോഗിച്ച് നമുക്ക് അത് ചെയ്യാൻ കഴിയും ഞാൻ കുറച്ചുകൂടി വ്യക്തമായി എഴുതട്ടെ ലാണ് സെലക്ഷൻ വ്യവസ്ഥകൾ സ്വതന്ത്രമാണ് അതായത് മുതലായവ പരസ്പരം സ്വതന്ത്രമാണ് എസ്റ്റിമേറ്റ് കേവലം യ്ക്കുള്ളതാണ് s1 എന്നത് സെലക്റ്റിവിറ്റിയാണ് യ്ക്ക് s2 എന്നത് സെലക്റ്റിവിറ്റിയാണ് ഈ സെലക്റ്റിവിറ്റി വ്യവസ്ഥകൾ നമുക്ക് എഴുതാം അതിനാൽ നിബന്ധനകൾക്കായി തിരഞ്ഞെടുത്ത ടപ്പിളുകളുടെ എണ്ണം കഞ്ചക്ഷൻ അവസ്ഥയുടെ മൊത്തം സെലക്റ്റിവിറ്റിയാണ് ഇത് ഇത് nr കൊണ്ട് ഗുണിക്കുമ്പോൾ അത് തിരഞ്ഞെടുക്കാൻ പോകുന്ന മൊത്തം ടപ്പിളുകളുടെ എണ്ണം നൽകുന്നു നമ്മൾ ഏകദേശം അനുമാനിക്കാൻ പോകുന്നു ഇവ സ്വതന്ത്രമാണ് സ്വാതന്ത്ര്യം ലംഘിക്കുകയാണെങ്കിൽ ഇത് പ്രവർത്തിക്കില്ല പക്ഷേ അത് കുഴപ്പമില്ല അടുത്തത് ഡിസ്ഞ്ചക്ഷനാണ് ഡിസ്ഞ്ചക്ഷൻ അവസ്ഥ പ്രധാനമായും ആണ് നമുക്ക് ഇത് ഇനിപ്പറയുന്ന രീതിയിൽ പരിഹരിക്കാം എന്താണ് ഡിസ്ഞ്ചക്ഷൻ എന്താണ് കൃത്യമായി ഉം ഉം എന്നിവയിൽ ടപ്പിൾ തിരഞ്ഞെടുത്തു നമുക്ക് ഈ അവസ്ഥയെ നെഗേറ്റ് ചെയ്യാം ഡിസ്ഞ്ചക്ഷൻ കഞ്ചക്ഷന്റെ നെഗേറ്റായി കണക്കാക്കാം ഇവയുടെ ഡിസ്ഞ്ചക്ഷനാണ് മൂല്യങ്ങൾ ഏതെങ്കിലും നെഗറ്റീവ് സംയോജനത്തിൽ ഇത് തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ ഈ ഡിസ്ഞ്ചക്ഷനായി ഒരു ടപ്പിൾ തിരഞ്ഞെടുത്തിരിക്കുന്നു ആ കഞ്ചക്ഷന്റെ നെഗേറ്റായി ഇത് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഡിസ്ഞ്ചക്ഷന് ഒരു ടപ്പിൾ തിരഞ്ഞെടുത്തിട്ടില്ലെന്ന് പറയുന്നതിനുള്ള മറ്റൊരു മാർഗമാണിത് ഈ തന്ത്രം ഉപയോഗിച്ച് ഇനിപ്പറയുന്ന രീതിയിൽ ഫോർമുല എഴുതാം അതായത് അവസ്ഥയുടെ നിഷേധത്തിന്റെ തിരഞ്ഞെടുപ്പാണ് ഇത് നമുക്ക് അത് എഴുതാം എല്ലാ എന്നിവയും സ്വതന്ത്രമാണെന്ന് നമ്മൾ വീണ്ടും അനുമാനിക്കുന്നു അവരുടെ നെഗേഷനും സ്വതന്ത്രമാണ് nr കൊണ്ട് ഗുണിച്ച ഈ സംയോജനത്തിന്റെ നെഗേഷന്റെ സെലക്ഷൻ ടപ്പിളുകളുടെ എണ്ണം നൽകുന്നു ഇവിടെ കഞ്ചക്ഷൻ ശരിയല്ല ഡിസ്ഞ്ചക്ഷൻ കാരണം അതിന്റെ നെഗേഷൻ കണ്ടെത്തേണ്ടതുണ്ട് ഇത് ഈ മൂല്യം മൈനസ് ഇത് ആണ് അതിനാൽ ഇത് ഡിസ്ഞ്ചക്ഷനുള്ള ഫോർമുല നൽകുന്നു കൂടാതെ മുന്നോട്ട് പോയി അടുത്ത നെഗേഷനായി അത് പരിഹരിക്കാൻ ശ്രമിക്കാം വ്യവസ്ഥയുടെ നെഗേഷൻ ആണ് അത് വളരെ എളുപ്പമാണ് നമ്മൾ ഇതിനകം കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇത് സങ്കീർണ്ണമായ സെലക്ഷൻ ആണ് പക്ഷേ ഇത് അടിസ്ഥാനപരമായി nr മൈനസ് ന്റെ എസ്റ്റിമേറ്റ് പോലെയാണ് ഇത് നമ്മൾ ഇതിനകം കണ്ടു അത് തിരഞ്ഞെടുക്കാനുള്ള വലിപ്പം കണക്കാക്കുന്നു ലളിതമായ സെലക്ഷൻ നമ്മൾ കണ്ടു സങ്കീർണ്ണമായ സെലക്ഷനുകൾ നമ്മൾ കണ്ടു അടുത്തതായി ജോയിന്റെ വലുപ്പം കണക്കാക്കും നാച്ചുറൽ ജോയിൻ ജോയിന്റെ വലുപ്പം കണക്കാക്കിക്കൊണ്ട് നമുക്ക് ആദ്യം ആരംഭിക്കാം ഏറ്റവും ലളിതമായ കേസ് ക്രോസ് ഉൽപ്പന്നത്തിന്റെ വലുപ്പമാണ് നിങ്ങൾ സ്വാഭാവിക നിലയിലേക്ക് വരും ക്രോസ് ഉൽപ്പന്നത്തിന്റെ വലുപ്പം എന്താണ് അത് ആണ് അത് r ഉം s ഉം രണ്ട് റിലേഷൻ ആണെന്ന് നമ്മൾ അനുമാനിക്കുന്നു രണ്ടുതവണ ജോയിൻ ചെയ്യാം രണ്ട് റിലേഷനുമായി മാത്രം ചേരുക നമ്മൾ ചെയ്ത ഒരൊറ്റ ജോയിൻ ഓപ്പറേഷനാണിത് ക്രോസ് ഉൽപ്പന്നം ലളിതമാണ് ഒരു ജോയിൻ എന്താണ് സാധാരണ ജോയിൻ ചെയ്യുന്നത് അടിസ്ഥാനപരമായി ക്രോസ് ഉൽപ്പന്നത്തിലെ യുടെ ഒരു തിരഞ്ഞെടുപ്പ് മാത്രമാണ് പ്രധാനമായും ഇവ ചേരുന്നതിന്റെ വലുപ്പം കണക്കാക്കുന്നത് ക്രോസ് ഉൽപ്പന്ന വലുപ്പത്തിലുള്ള യുടെ ഏകദേശമാണ് ഈ എസ്റ്റിമേറ്റ് എന്തുതന്നെയായാലും അത് ചെയ്യാനുള്ള ഒരു മാർഗമാണ് പ്രധാനമായും ട്രാക്ക് അനുമാനിക്കുക നമ്മൾ സ്വാഭാവിക ജോയിനുകളുടെ കാര്യത്തിലേക്ക് മടങ്ങുന്നു ഇല്ലെങ്കിൽ ഈ നാച്ചുറൽ ജോയിറിന്റെ വലുപ്പം പ്രധാനമായും ക്രോസ് ഉൽപ്പന്നത്തിന്റെ വലുപ്പം മാത്രമാണ് ഇപ്പോൾ എന്നത് r ന്റെ ഒരു കീ ആണെങ്കിൽ ഓരോ ടപ്പിളും കൂടുതലും r ന്റെ ഒരു ടപ്പിളിൽ ജോയിൻ ചെയ്യും അതിനാൽ നമുക്ക് r s എന്നിവയുടെ സ്കീമുകൾ നോക്കാം ഇതാണ് r ന്റെ സ്കീമും s ന്റെ സ്കീമയും r s എന്നിവയുടെ സ്കീമുകൾ r നു ഒരു കീ ആണെന്ന് കരുതുക അതായത് പരമാവധി r ന്റെ ഒരു ടപ്പിൾ s ന്റെ പരമാവധി ഒരു ടപ്പിളുമായി ചേരും ഇതിന്റെ വലിപ്പം s ലെ മിക്കവാറും എല്ലാ ടപ്പിലുകളിലും ആകാം അതാണ് ns മറുവശത്ത് എന്നത് s ന്റെ ഒരു വിദേശ കീ ആണെങ്കിൽ ആ പരാമർശങ്ങൾ r ആണെങ്കിൽ ഇത് കൃത്യമായി ns ന് തുല്യമായിരിക്കും s ലെ എല്ലാ മൂല്യങ്ങൾക്കും ഒരു അനുബന്ധ കാര്യം r ൽ ഉണ്ടായിരിക്കണം s ലെ എല്ലാ ടപ്പിളുകൾ ജോയിൻ ചെയ്യണം അതിനാൽ എല്ലാം s ഒരു ഫലമാണ് ഇത് മിക്കവാറും ns ആണ് ഇത് ns ന് തുല്യമായതിനേക്കാൾ കുറവാണ് കാരണം ഇത് ഒരു വിദേശ കീ അല്ലെങ്കിൽ ആർക്ക് r അല്ലെങ്കിൽ r ൽ ഒരു കണ്ടെത്തൽ ടപ്പിളുകൾ ഉണ്ടോ എന്ന് വ്യക്തമല്ല അല്ലെങ്കിൽ പൊതുവായ കേസ് പിന്തുടരുന്നു r ലെ ടപ്പിളുകൾ tr ന് ജോയിൻ ചെയ്യാമെന്ന് കരുതുക എന്തുകൊണ്ടാണത് കാരണം r ലെ ടപ്പിളിന് ഒരു പ്രത്യേക മൂല്യമുണ്ട് x കൂടാതെ x ൽ s തിരഞ്ഞെടുക്കുന്നതിനുള്ള ഏകദേശ കണക്ക് ആണ് r ലെ എല്ലാ ടപ്പിളുകൾക്കും നോടൊപ്പം ചേരാം കണ്ടെത്താവുന്ന ആകെ ജോയിൻ ടുപ്പിളുകളുടെ എണ്ണം kk ആണ് ഇത് r ന്റെ കാഴ്ചപ്പാടിൽ നിന്നാണ് എന്നിരുന്നാലും s ന്റെ വ്യൂ പോയിന്റിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരേ കാര്യം ചെയ്യാൻ കഴിയും ലഭിക്കുന്ന ഏകദേശ കണക്ക് ആണ് ഇപ്പോൾ ഏതാണ് നല്ലത് ഇതാണ് രണ്ട് എസ്റ്റിമേറ്റ് പൊതുവേ താഴ്ന്ന വലുപ്പം ഒരു മികച്ച കണക്കാണെന്ന് നമ്മൾ കണ്ടെത്തുന്നു ഈ രണ്ടിൽ നിന്നും താഴ്ന്നതാണ് മികച്ച എസ്റ്റിമേറ്റ് ഇത് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഹിസ്റ്റോഗ്രാമുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ എസ്റ്റിമേറ്റ് മെച്ചപ്പെടുത്താനാകും ഹിസ്റ്റോഗ്രാമുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ രണ്ട് എസ്റ്റിമേറ്റുകളും മെച്ചപ്പെടുത്താനാകും യഥാർത്ഥ എസ്റ്റിമേറ്റും മെച്ചപ്പെട്ടു ഇത് ജോയിൻ ചെയ്യുന്ന വലുപ്പങ്ങളാണ് മറ്റ് ചില പ്രവർത്തനങ്ങളുടെ വലുപ്പം നമുക്ക് കാണാൻ കഴിയും പ്രൊജക്ഷന്റെ വലുപ്പത്തിനുള്ള ഉത്തരം നമ്മൾ ഇതിനകം കണ്ടു നമ്മൾ കണ്ട വ്യത്യസ്ത മൂല്യങ്ങളുടെ എണ്ണമാണിത് അതിനാൽ ഇത് കേവലം ആണ് പിന്നെ നമ്മൾ സമാഹരണത്തിന്റെ വലിപ്പം കണക്കാക്കുന്നു ഇത് ഇതിനുള്ള സമാഹരണ പ്രവർത്തനമാണെന്ന് കരുതുക ഇത് വെറും ആണ് എന്തുകൊണ്ടാണത് കാരണം ഒരു പ്രത്യേക ആട്രിബ്യൂട്ടിൽ ആണ് സമാഹരണം നടത്തുന്നത് അതിന്റെ അർത്ഥം അത് ആട്രിബ്യൂട്ടുകളിലെ ഒരു പ്രൊജക്ഷൻ ആണ് A യുടെ ഓരോ പ്രത്യേക മൂല്യത്തിനും വേണ്ടിയാണ് ഈ സമാഹരണം നടത്തുന്നത് അത് ന്റെ എണ്ണമാണ് പരിപാലിക്കുന്ന A യുടെ വ്യത്യസ്ത മൂല്യത്തിന്റെ എണ്ണം അതാണ് r sഎന്നിവയുടെ യൂണിയൻ ആണ് എസ്റ്റിമേറ്റ് ആണ് ഇത് അപ്പർ ബൌണ്ടാണ് അത് അതിനേക്കാൾ കുറവായിരിക്കാം അതുപോലെ ഇൻറ്റർസെക്ഷൻ പിന്നീട് കണ്ടെത്താനാകും അതിനാൽ ന്റെ ഇൻറ്റർസെക്ഷൻ എസ്റ്റിമേറ്റ് ആണ് ഇത് ഒരു യാഥാസ്ഥിതിക കണക്കാണ് അടുത്തത് സെറ്റ് വ്യത്യാസമാണ് അത് ആണ് ഇതിനുള്ള ഏകദേശ കണക്ക് ആണ് ഇത് വീണ്ടും ഉയർന്നതാണ് കാരണം s ലെ ടപ്പിളിൽ ആർക്കും പൊതുവായതല്ലെന്ന് അനുമാനിക്കുന്നു അതിനാൽ എല്ലാ nr ഉം തിരികെ നൽകാം ഇവയെല്ലാം അപ്പർ ബൌണ്ടാണ് അടുത്തത് ലെഫ്റ്റ് ഔട്ടർ ജോയിൻ ആണ് യുടെ ഏകദേശ കണക്ക് r ജോയിൻ ചെയ്യുന്നതിന്റെ വലുപ്പമാണ് ഇത് r ലെ എല്ലാം ഉൾക്കൊള്ളുന്നില്ല അതിനാൽ ഈ പ്ലസ് വലിപ്പവും ൽ ചേരുന്ന എല്ലാ ടപ്പിളും r ൽ ഉള്ള എല്ലാ ടപ്പിളും കാരണം ഏറ്റവും മോശം കാര്യം r ലെ എല്ലാ ടപ്പിളുകളും ഉപേക്ഷിച്ചു എന്നതാണ് വലത് ഔട്ടർ ജോയിൻ സമാനമാണ് കൃത്യതയ്ക്കായി ഞാൻ ഇത് എഴുതട്ടെ rs ന്റെ കൂടെ r s nsമായി ജോയിൻ ചെയ്യാം കൂടുതൽ രസകരമായ കേസ് r s എന്നിവയുടെ പൂർണ്ണ ഔട്ടർ ജോയിൻ ആണ് r ന്റെ വലുപ്പം s പ്ലസ് nr പ്ലസ് ns മായി ചേർന്നതാണ് കാരണം ഏറ്റവും മോശമായ സന്ദർഭത്തിൽ r s എന്നിവ ഒന്നും ചേരാനാകില്ല വീണ്ടും ഇവ മുകളിലാണ് അത് ക്വയറി ഒപ്റ്റിമൈസേഷനെക്കുറിച്ചുള്ള വിഷയം പൂർത്തിയാക്കുന്നു അടുത്തതായി ഡാറ്റാബേസുകളെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് നമ്മൾ പോകും അത് ഡാറ്റാബേസ് ട്രാൻസാക്ഷൻ ആണ്